സോളിഡ് വർക്കുകൾ തുടരുന്നു എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം 3 ഡി ഡ്രോയിംഗുകൾ നിർമ്മിക്കുന്നതിനായി സോളിഡ് വർക്ക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ബോൾട്ടും നട്ട്സും എങ്ങനെ ഉണ്ടാക്കാം ഈ ത്രെഡുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കും നമ്മൾ നേടുന്നതിന്റെ ആദ്യ ലക്ഷ്യം ഇതാണ് അതിനാൽ ആദ്യം ഒരു സ്റ്റഡ് എടുക്കുന്നതിലും ഒരു ത്രെഡ് മുറിക്കുന്നതിലും നമ്മൾ വളരെ ലളിതമായ ഒരു സ്കീമാറ്റിക് വഴിയിലൂടെ കടന്നുപോകും അതിനുശേഷം നമ്മൾ ഒരു മെട്രിക് 10 ത്രെഡ് നിർമ്മിക്കും അതിനാൽ ആദ്യപടി ഒരു പുതിയ ഭാഗത്ത് ഇരട്ട ക്ലിക്കുചെയ്തതിനുശേഷം നമ്മുക്ക് ഒരു ശൂന്യമായ സ്ക്രീൻ ഉണ്ടാകും തുടർന്ന് നമ്മൾ ഒരു പ്രതലത്തെ തിരഞ്ഞെടുക്കുന്നു റൈറ്റ് പ്രതലത്തിനു നോർമലായിട്ടുള്ള പ്രതലമായാണ് തിരഞ്ഞെടുക്കേണ്ടത്അവിടെ ഒരു സ്റ്റഡ് വരയ്ക്കും അതിനായി നമ്മുടെ കൈവശം ഒരു വൃത്താകൃതിയിലുള്ള സിലിണ്ടറാണ് ഉള്ളത് ഇത് ഏകദേശം 5 മില്ലിമീറ്റർ ദൂരം ആകാം ഇപ്പോൾ ഈ സർക്കിൾ ഏകദേശം 30 മില്ലീമീറ്റർ 3ഡിമെൻഷൻ എക്സ്ട്രൂഡ് ചെയ്യാം അതിനായുള്ള സിലിണ്ടർ നമ്മളുടെ പക്കലുണ്ട് അതിൽ ഒരു ത്രെഡ് കട്ട് പോലെ എന്തെങ്കിലും നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ സാധാരണയായി ഈ സ്റ്റഡുകൾ എല്ലായ്പ്പോഴും ഷാംഫർ ചെയ്യപ്പെടും അതിനാൽ ഈ ഉപരിതലത്തിൽ നമ്മൾ അത് എടുക്കും ഷാംഫെറിംഗിനൊപ്പം പോകുക നമ്മൾ ഉണ്ടാക്കുന്ന 45 ഡിഗ്രിയിൽ 1 മില്ലീമീറ്റർ ഷാംഫർ അങ്ങനെ ചെയ്യുമ്പോൾ സോളിഡ് പ്രതലത്തിൽ നമുക്ക് അത്തരം ഷാംഫെറിംഗ് ഉണ്ടാകും ആദ്യം ത്രെഡ് കട്ട് ചെയ്യേണ്ടത് ഒരു ഹെലിക്കൽ പാതയിലാണ് കാരണം ഈ സ്ക്രൂകൾ അല്ലെങ്കിൽ ത്രെഡുകൾ എല്ലായ്പ്പോഴും ഒരു ഹെലിക്കൽ പാതയാണ് അത് വഴി ഒരു ത്രെഡ് ടൂൾ ബിറ്റ് അല്ലെങ്കിൽ കട്ട് പോകുന്നു അങ്ങനെ അത് മെറ്റീരിയൽ നീക്കം ചെയ്താൽ ഒടുവിൽ നമ്മുക്ക് ത്രെഡ് ഉണ്ട് അതിനാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഷാഫ്റ്റിന് ചുറ്റും ഒരു ഹെലിക്സ് നിർമ്മിക്കുക എന്നതാണ് അതിനാൽ ആദ്യ ഘട്ടം ഹെലിക്സ് നിർമ്മിക്കുക എന്നതാണ് അതിനായി 5 മീറ്റർ ദൂരത്തിന്റെ ഒരു വൃത്തമുണ്ടാക്കണം അതിനായി നമുക്ക് ആ സർക്കിൾ ഉണ്ട് ആ സർക്കിളിന് ചുറ്റും ഒരു ഹെലിക്കൽ ത്രെഡ് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യേണ്ടത് മുകളിലെ നിലയിലുള്ള വക്രത്തെ ഹെലിക്സ് സ്പൈറൽ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുക്ക് അത്തരം ഒരു ത്രെഡ് ഉണ്ട് കാരണം ഇപ്പോൾ ഇത് പ്രാക്ടീസ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 20 മില്ലീമീറ്റർ ഉയരമുള്ള ചില ഹെലിക്കൽ പാത ഉണ്ടാക്കുക എന്നതാണ് അതിനർത്ഥം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഹെലിക്സിന്റെ നീളം 20 മില്ലീമീറ്റർ പിച്ച് 1 5 മില്ലീമീറ്ററാണ് ഇത് ഘടികാരദിശയിലുള്ള ഹെലിക്സാണ് നിങ്ങൾ ഭാവിയിൽ എഡിറ്റുചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ മാറ്റാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലത് ക്ലിക്ക് നൽകിയാൽ മതിയാകും ഈ ഹെലിക്സ് ആരംഭിക്കുന്നത് 90 ഡിഗ്രിയിൽ നിന്നാണ് അതിനാൽ ഈ അമ്പടയാളം ആരംഭിക്കുമ്പോൾ ഹെലിക്സ് ആരംഭിക്കുന്നു ഈ കട്ട് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സിലിണ്ടറിന് ചുറ്റും പോകുന്നു അതിനാൽ പിച്ച് 1 5 മില്ലീമീറ്ററാണ് ഇത് 20 മില്ലീമീറ്ററിലേക്ക് പോകുന്നു ഇത് 90 ഡിഗ്രിയിൽ ആരംഭിക്കുന്നു ഇത് നമ്മൾ നിർമ്മിക്കുന്ന ഘടികാരദിശയിലുള്ള ഒരു ത്രെഡാണ് അതിനാൽ ഓക്കേ ക്ലിക്കുചെയ്യുക അത് ചെയ്തുകഴിഞ്ഞാൽ മുൻ പ്രതലത്തിലേക്ക് പോകുക അവിടെ നമുക്ക് ഈ ഹെലിക്സ് കാണാൻ കഴിയും അതിനാൽ ഇത് ഒരു പരിശീലനമായതിനാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ത്രികോണ കത്തിയാണ് ഈ ഹെലിക്സിലൂടെ കടന്നുപോകാൻ നമ്മൾ അത് എടുക്കുന്നു അതിനാൽ ഈ ത്രികോണം നിർമ്മിച്ചതിനുശേഷം നമ്മൾ ഏകപക്ഷീയമായി സ്ഥാനം സ്ഥാപിക്കുന്നു കാരണം ഇത് ഒരു ത്രെഡ് നിർമ്മിക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ് ഈ ത്രികോണം തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഈ അരികുകൾ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരും തുടർന്ന് നമ്മൾ സ്കെച്ച് 3 ഉം ഹെലിക്സും കാണും ഇപ്പോൾ സ്കെച്ച് 3 ഉം ഹെലിക്സും തിരഞ്ഞെടുക്കുക രണ്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ സവിശേഷതകളുടെ തലത്തിൽ നോക്കൂ എക്സ്ട്രൂഡഡ് ബോസ് റിവോൾവ്സ് അടിസ്ഥാനമാക്കിയുള്ള എക്സ്ട്രൂഡഡ് കട്ട് സ്വീപ്പ് കട്ട് എന്നിവയുണ്ട് അതിനാൽ സ്വീപ്പ് കട്ട് ക്ലിക്കുചെയ്യുക തുടർന്ന് ഒരു ത്രെഡ് ചെയ്ത ഭാഗം കടന്നുപോകുന്നത് പോലെ നമുക്ക് കാണാം അതിനാൽ നിങ്ങൾ സ്കെച്ച് 3 ഹെലിക്സ് പാത്തുകൾ എന്നിവ തിരഞ്ഞെടുക്കണം ഇത് പൂർത്തിയായാൽ അത് സ്വെപ്റ്റ് കട്ട് ചെയ്യുക ഇത് ഇത്തരത്തിലുള്ള മഞ്ഞകലർന്ന നിറം കാണിക്കുന്നു തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക തുടർന്ന് ത്രെഡ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് മെട്രിക് 10 എംഎം ത്രെഡ് നിർമ്മിക്കും അതിനു സാധാരണയായി 10 മില്ലീമീറ്റർ ത്രെഡുകൾക്ക് എല്ലായ്പ്പോഴും ഒരു തല ഭാഗം പോലെയാണ് ഒരു സ്റ്റഡ് ഭാഗംചില ത്രെഡുകൾ ഉണ്ട് ചില ഷഡ്ഭുജാകൃതിയിലുള്ള ഘടനകളും ഉണ്ടായിരിക്കും അതിനാൽ ഘട്ടം ഘട്ടമായി ആ എം 10 ത്രെഡ് നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് ഒരു ശരിയായ പ്രതലം തിരഞ്ഞെടുക്കാം ആ ശരിയായ പ്രതലാത്തിൽ നമ്മൾ ആദ്യം ഒരു ബോൾട്ടിന്റെ തല നിർമ്മിക്കുന്നു അതിനാൽ തല എല്ലായ്പ്പോഴും ഒരു വൃത്താകൃതിയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് 16 മില്ലീമീറ്ററിൽ 16 മില്ലീമീറ്റർ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഒന്നാണ് അതായത് 8 മില്ലീമീറ്റർ ദൂരം അത് 10 മില്ലീമീറ്ററിലധികം ആഴത്തിൽ ഉണ്ടാകും അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ്ട്രൂഡ് ബോസിനെ നിർമ്മിക്കുക എന്നതാണ് അത് 10 മില്ലീമീറ്റർ ഹെഡ് ആയിരിക്കും ഇപ്പോൾ ഈ സാധാരണ ഉപരിതലത്തിലേക്ക് നമ്മൾ ഒരു ഷഡ്ഭുജം വരയ്ക്കുന്നു ഒരു ഷഡ്ഭുജെത്തിന്റെ 6 വശങ്ങൾ നമ്മൾ നിർമിക്കും തുടർന്ന് നമ്മൾ സ്മാർട്ട് അളവ് ഉപയോഗിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ വരെ 8 മില്ലീമീറ്റർ ആയിരിക്കണം ഡാറ്റാ ബുക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് നമ്പറുകളാണിത് നിങ്ങൾ ഒരു ബോൾട്ട് അല്ലെങ്കിൽ മെഷീനിൽ ഒരു ബോൾട്ട് നിർമ്മിച്ച് അത് തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഉയരങ്ങൾ പോലുള്ള ചില സ്റ്റാൻഡേർഡ് കൺവെൻഷനുകൾ ഉണ്ട് ഡിസൈൻ കണക്കുകൂട്ടൽ കാരണം ദൈർഘ്യം ഇത്രയും വലുതായിരിക്കണം സ്ട്രെസ് സ്ട്രെയിൻ ആ ബോൾട്ടിൽ നിങ്ങൾ എത്രമാത്രം സ്റ്റോക്ക് പ്രയോഗിക്കുന്നു അത് നിലനിർത്താൻ കഴിയുമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഏത് തരത്തിലുള്ള മെറ്റീരിയലാലാണ് ഉള്ളത് എന്ന് മെഷീൻ ഡിസൈൻ ഡാറ്റ ബുക്കുകളിൽ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഈ അളവുകൾ അടിസ്ഥാനമാക്കി നമ്മൾ ഇത്തരത്തിലുള്ള ബോൾട്ട് നിർമ്മിക്കുന്നു അതിനാൽ അതിനുള്ളിൽ ഒരു ഷഡ്ഭുജാകൃതി മുറിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി ഷഡ്ഭുജത്തിന്റെ 6 വശങ്ങളും തിരഞ്ഞെടുക്കാം ഇപ്പോൾ എക്സ്ട്രൂഡഡ് കട്ട് ചെയ്യുക കട്ടിന്റെ ആഴം നമുക്ക് 5മില്ലീമീറ്റർ 5 5 മില്ലീമീറ്റർ എന്നിങ്ങനെയാക്കാം അതിനാൽ നമ്മുക്ക് ഇത്തരത്തിലുള്ള തല ഭാഗം ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് അത് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള റെഞ്ച് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ മറ്റൊരു സർക്കിൾ വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുവഴി ആ ബോൾട്ടിന്റെ സ്റ്റഡ് ഭാഗം നമുക്ക് കൈവശം വയ്ക്കാൻ കഴിയും അത് 25 മില്ലീമീറ്റർ നീളവും 10 മില്ലീമീറ്റർ വ്യാസമുള്ള സർക്കിളും ആയിരിക്കും അതിനാൽ നമുക്ക് 5 മില്ലീമീറ്റർ വ്യാസമോ 10 മില്ലീമീറ്റർ വ്യാസമോ നിർമ്മിക്കാം ഈ സർക്കിളിൽ നമ്മുക്ക് 25 മില്ലീമീറ്റർ വരെ നീളമുള്ള ബോസ് ബേസ് പുറത്തെടുക്കാൻ കഴിയും അതിനായി നമ്മുക്ക് ബോൾട്ട് ഭാഗം ഉണ്ട് ഇപ്പോൾ സാധാരണയായിനമ്മുക്ക് ഷാർപ് കോർണേഴ്സ് ആണ് തരുന്നതെങ്കിൽ അത് ഒഴിവാക്കാൻ 45 ഡിഗ്രി 1 മില്ലീമീറ്റർ ഷാംഫറിംഗ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു അതിനാൽ സ്റ്റഡ് ചെയ്തു അതിനാൽ ഈ ബോൾട്ട് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഹെലിക്കൽ പാതയും ഒരു നല്ല വക്രതയോടുകൂടിയ ഒരു ത്രികോണാകൃതിയിലുള്ള കട്ടും ഉണ്ടാക്കി ഈ പിച്ച് ഉയരം എന്നിവയുമായി പൊരുത്തപ്പെടുത്തി അതിൽ നിന്ന് ഒരു ത്രെഡ് ഉണ്ടാക്കുക എന്നതാണ് അതിനാൽ ആദ്യ ഘട്ടം 5 മില്ലീമീറ്റർ ദൂരവുമായി പൊരുത്തപ്പെടുന്ന ഒരു സർക്കിൾ കൂടി നിർമ്മിക്കുക സാധ്യമാണ് അതിനാൽ നമ്മുക്ക് 5 മില്ലീമീറ്റർ ദൂരം ഉണ്ട് ഇപ്പോൾ കർവ് ഹെലിക്സിന് മുകളിൽ ചേർക്കുന്നതിന് ഇത് തിരഞ്ഞെടുക്കുക അതിനാൽ 20 മില്ലീമീറ്റർ വരെ ഈ ത്രെഡും 1 5 മില്ലീമീറ്റർ പിച്ചും ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് 90 ഡിഗ്രി കോണിൽ ആരംഭിക്കാം അതിനാൽ അതിലൂടെ കടന്നുപോകാനുള്ള ഒരു ഉപകരണം നിർമ്മിക്കാൻ നമ്മുക്ക് ഒരു ത്രികോണം നിർമ്മിക്കാനും ഓക്കേ ക്ലിക്കുചെയ്യാനും കഴിയും ഇത് ചെയ്തുകഴിഞ്ഞാൽ മുൻവശം കാണുക ശരി ഇപ്പോൾ ഇവിടെ സൂം ചെയ്യുന്നു ഇവിടെ നമ്മൾ 0 ഡിഗ്രി ഉപയോഗിച്ച് ഈ പോയിന്റിലൂടെ കടന്നുപോകുന്ന ഒരു മധ്യരേഖ നിർമ്മിക്കുന്നു നമുക്ക് ദിശ നോക്കാം അതിനാൽ ഇപ്പോൾ വീണ്ടും മുൻവശത്തെ പ്രതലത്തിലേക്ക്പോകുക ശരി അതിൽ നമുക്ക് ഒരു ത്രികോണം പരിഗണിക്കാം അതിനാൽ ത്രികോണം ഉപയോഗിക്കുക ടൂൾ ബിറ്റ് എല്ലായ്പ്പോഴും ഈ താഴേക്കുള്ള ദിശയിലായിരിക്കുക നിർമ്മിച്ചത് ഇത് നീക്കംചെയ്യുക സൂം ഇൻ ചെയ്യുക ഇപ്പോൾ ഈ അരികിൽ നിന്ന് ഈ ഉയരം 1 14 ടൂൾ ബിറ്റ് ആണെന്ന് കരുതപ്പെടുന്നു അതിനാൽ സ്മാർട്ട് ഡൈമൻഷൻ ഉപയോഗിക്കുക ഇത് തിരഞ്ഞെടുക്കുക അത് 1 14 മില്ലീമീറ്ററായിരിക്കുമെന്ന് ഉറപ്പാക്കുക രണ്ടാമത്തെ കാര്യം നമുക്ക് മറ്റൊരു സെന്റർ ലൈൻ മധ്യഭാഗത്ത് ചേരാം അത് ഈ പോയിന്റിലൂടെ കടന്നുപോകുന്നു ഇപ്പോൾ നമുക്ക് ചുറ്റും ഒരു ആർക്ക് പോലെയുള്ള ഒന്ന് ആവശ്യമുണ്ട് കാരണം നമ്മുക്ക് ഇത്തരത്തിലുള്ള മൂർച്ചയുള്ളതോ ടൂൾ ബിറ്റോ ആവശ്യമില്ല മൂർച്ചയില്ലാത്ത ഒന്ന് പോലെ അത് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് സുഗമമായ വക്രത ഉണ്ടാകും അതിനായി നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഒരു മധ്യരേഖ കൂടി നിർമ്മിക്കുന്നു ശരി കാരണം നമ്മൾക്ക് വക്രത്തിന്റെ കേന്ദ്രം ആവശ്യമാണ് ഇതാണ് ആ പോയിന്റ് അതിനാൽ ഈ സെൻട്രോയിഡിൽ നിന്നുള്ള ഈ ലൈൻ 0 32 മില്ലിമീറ്റർ ആകുന്ന തരത്തിൽ ഇവിടെ ഒരു സെന്റർ ലൈൻ നിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ലൈൻ നീക്കംചെയ്യും നമുക്ക് ആ വരി നീക്കംചെയ്യാനും ഇതും നീക്കംചെയ്യാനും കഴിയും ഈ പോയിന്റുകളിലൂടെയാണ് നമ്മൾ ഒരു ആർക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ 3 പോയിന്റ് ആർക്ക് ആ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് തിരഞ്ഞെടുത്ത് നീക്കുക ഇപ്പോൾ ഇത് ഈ വരിയിൽ സ്പർശിക്കുന്നതായിരിക്കണം അതിനാൽ നമ്മൾ എന്തു ചെയ്യും ഇത് തിരഞ്ഞെടുക്കുക അവ പരസ്പരം സ്പർശിക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ അതുപോലെ അവ പരസ്പരം സ്പർശിക്കുന്ന വരി തിരഞ്ഞെടുക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ ശരി ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും എന്റിറ്റികൾ ട്രിം trim entities ചെയ്യാൻ പോകുക ഈ ഭാഗം നീക്കംചെയ്യുക ഭാഗം നീക്കംചെയ്യുക മാത്രമല്ല ഇതും നമ്മുക്ക് ആവശ്യമില്ല അതുപോലെ നമ്മുക്ക് ഈ വരികൾ ആവശ്യമില്ല തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവന്നതിനുശേഷം മുഴുവൻ ഒബ്ജക്റ്റും തിരഞ്ഞെടുക്കേണ്ടതാണ് തുടർന്ന് ഹെലിക്സ് പാതയും തിരഞ്ഞെടുക്കുക നിയന്ത്രിക്കുക ഫീച്ചേഴ്സിലേക്ക് പോകുക സ്വെപ്റ്റ് കട്ട് ചെയ്യാൻ പോകുക തുടർന്ന് ഇത് മുഴുവൻ ഭാഗവും കറങ്ങുന്ന ഭാഗം പോലെയാണ് കാണിക്കുന്നത് തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ത്രെഡ് ഉണ്ടാകും നമുക്ക് എല്ലായ്പ്പോഴും ഉള്ള സൌന്ദര്യാത്മക വശങ്ങൾ ഈ ഭാഗം എങ്ങനെ മൃദുവാക്കാം നമുക്ക് മറ്റെന്തെങ്കിലും ത്രികോണാകൃതിയിലുള്ള കട്ടുകളും മറ്റ് കാര്യങ്ങളും ഉണ്ടോ എന്നിങ്ങനെയുള്ള മറ്റ് വശങ്ങളുണ്ട് ഈ ബോൾട്ടിന്റെ വ്യത്യസ്ത കാഴ്ചകൾ നമുക്ക് നോക്കാം അതിനാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഐസോമെട്രിക് കാഴ്ചയാണ് ഇത് ഒരു നിർമ്മാണമാണെങ്കിൽ നമ്മുക്ക് അത് നീക്കംചെയ്യാം ഐസോമെട്രിക് കാഴ്ച ഇങ്ങനെയാണ് ഇപ്പോൾ 3 വ്യത്യസ്ത കാഴ്ചകൾ മുൻവശം മുകളിലെ കാഴ്ച ഇടത് വശത്തെ കാഴ്ച ഐസോമെട്രിക് കാഴ്ച എന്നിവ കാണുക ഇപ്പോൾ ഈ ബോൾട്ടിനായി നമ്മൾ ഒരു നട്ട് നിർമ്മിക്കും അതിനായി നമ്മൾ ചെയ്യുന്നത് പുതിയതിലേക്ക് പോകുക ഒരു ഭാഗം തുറക്കുക ഇപ്പോൾ ശരിയായ പ്രതലത്തിൽ സാധാരണ ഒരു ഷഡ്ഭുജാകൃതിയിലുള്ള നട്ട് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ സ്കെച്ചിലേക്ക് പോകുന്നു ഇവിടെ നിന്ന് 6 യൂണിറ്റുകൾ എടുക്കുക ഇവിടെ നിന്ന് ഇവിടെ വരെ സ്മാർട്ട് അളവുകൾ ഉപയോഗിക്കുക ആ ബോൾട്ടിന്റെ ഹെഡ് ഭാഗം ആ ഉയരം എന്തുതന്നെയായാലും നമ്മൾ ഉപയോഗിക്കുക നമ്മൾക്ക് 16 മില്ലീമീറ്ററും സമാനമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നു ആ ആന്തരിക ഭാഗത്തിന് മുകളിൽ നമ്മൾ ഒരു ത്രെഡ് നിർമ്മിക്കേണ്ടതുണ്ട് കൂടാതെ സ്റ്റഡിന് 10 മില്ലീമീറ്റർ വ്യാസമുണ്ടെന്ന് നമ്മൾക്കറിയാം അതിനാൽ നമ്മൾ നിർമ്മിക്കുന്നത് 10 മില്ലീമീറ്റർ വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമാണ് ആന്തരികമായി സർക്കിൾ 10 മില്ലീമീറ്റർ വ്യാസമുള്ള അല്ലെങ്കിൽ 5 മില്ലീമീറ്റർ ദൂരം ക്ലിക്കുചെയ്യുക ഇപ്പോൾ ആലേഖനം ചെയ്ത ഈ സർക്കിൾ നമ്മൾക്ക് ആവശ്യമില്ല നിയന്ത്രണ ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ വരികൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഉപരിതലമാണിത് ഫീച്ചേഴ്സിലേക്ക് പോകുക ബോസ് ബേസ് പുറത്തെടുക്കുക അതിനാൽ ഇത് ഒരു നട്ട് സൃഷ്ടിക്കുന്നു അതിനാൽ ഈ നട്ട് നിർമ്മിക്കാൻ നമുക്ക് 6 മില്ലീമീറ്റർ വീതിയായി ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുക്ക് അത് ഉണ്ട് ഇത് ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരിക്കും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഷാംഫർ പോലുള്ള എന്തെങ്കിലും നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രധാനമായും അതിന്റെ ആന്തരിക ത്രെഡ് ഭാഗം നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടൽ റൈറ്റ് പ്ലെയിനിലേക്കു പോവുകയും അതിനു നോർമൽ ആയിട്ട് സർക്കിൾ വരക്കുക ഏത് ഹെലിക്സ് നിർമ്മാണത്തിന്റേയും ആദ്യ ഘട്ടം 5 മില്ലീമീറ്റർ വൃത്തമുണ്ടാക്കുന്നു ഓക്കേ ക്ലിക്കുചെയ്യുക തുടർന്ന് ഈ രീതിയിൽ ഇത് ദൃശ്യവൽക്കരിക്കുക നമ്മുക്ക് ആ സർക്കിൾ തിരഞ്ഞെടുക്കുക തുടർന്ന് കർവ് ചേർക്കുക ഹെലിക്സ് സ്പൈറൽ അതിനാൽ നമുക്ക് 6 മില്ലീമീറ്റർ വരെ ഉയരം നൽകാൻ കഴിയുന്ന സ്പൈറൽ കർവ് ഉണ്ട് അതിനാൽ ആ ലെവൽ വരെ നമുക്ക് ഒരു കട്ട് ചെയ്യാം ഒരുപക്ഷേ ഇത് 6 5 ആക്കുക അങ്ങനെ അത് ഒരു കട്ട് ആയി സുഗമമായി പുറത്തുവരും നമ്മൾ നൽകുന്ന 1 5 മില്ലീമീറ്റർ പതിവുപോലെ പിച്ച് ചെയ്യുക അത് എതിർ ഘടികാരദിശയിലാണ് കൂടാതെ ദിശയും മികച്ചതാണ് ക്ലിക് ഓക്കേ അതിനാൽ ആന്തരികമായി നമ്മൾക്ക് ഈ സർക്കിൾ ഉണ്ട് ഈ ഹെലിക്സ് 90 ഡിഗ്രി കോണിൽ നിന്ന് ആരംഭിക്കുന്നു നമുക്ക് അത് വീണ്ടും പരിശോധിക്കാം അതിനാൽ ഇത് 90 മില്ലീമീറ്റർ 90 ഡിഗ്രി ഉള്ള സവിശേഷത എഡിറ്റുചെയ്യാൻ പോകുക അതിനാൽ ഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നോർമൽ പ്രതലത്തിലേക്ക് നോർമൽപോലെ പോകുക അതിനാൽ ഇവിടെ നമ്മൾ ഒരു ത്രികോണ ഉപകരണം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ഭാഗമാണ് അതിനായി നമ്മൾ പോളിഗോണിലേക്ക് പോകുന്നു 3 വശങ്ങൾ ഇത് കേന്ദ്രമായി തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ ത്രികോണ ഉപകരണം മുറിക്കുക കാരണം ഇപ്പോൾ മുകളിലെ ഭാഗം നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ത്രികോണം മുകളിലെ വശത്തായിരിക്കുകയും ആ രീതിയിൽ നിർമ്മിക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് 1 1 മിമി ആയിരിക്കണം ഈ ഉയരം 1 14 മില്ലീമീറ്ററായിരിക്കണം അതിനാൽ നമ്മുക്ക് ത്രികോണം ഉണ്ട് തുടർന്ന് നമ്മുക്ക് 0 32 മിമി ആവശ്യമാണ് അതിനാൽ നമുക്ക് ഈ രീതിയിൽ ഒരു മധ്യരേഖ പരിഗണിക്കാം ഇവിടെ നിന്ന് ആദ്യത്തെ പോയിന്റിലേക്ക് 0 32 മില്ലീമീറ്റർ സ്മാർട്ട് അളവ് ഉപയോഗിക്കുക ഇത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഒരു ആർക്ക് 3 പോയിന്റ് ആർക്ക് ആ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു നിശ്ചിത ദൂരത്തിൽ നിർമ്മിക്കുന്നു ഇപ്പോൾ ആ വരിയിൽ ഇത് തിരഞ്ഞെടുക്കുക അതുപോലെ ഈ കർവ് ലൈൻ തിരഞ്ഞെടുക്കുക അത് സ്പർശിക്കുന്നു അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ നിയന്ത്രണ ബട്ടൺ മുറുകെ പിടിക്കുക അതിനാൽ ഈ ത്രികോണ നിർമ്മാണം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിൾ ആന്തരികമായി നീക്കംചെയ്യാം കൂടാതെ ആ ഭാഗവും ഈ ഭാഗവും നീക്കംചെയ്യുന്നതിന് നമുക്ക് ട്രിം എന്റിറ്റികൾ ഉപയോഗിക്കാം നമുക്ക് ഈ ചെറിയ ഭാഗങ്ങൾ നീക്കംചെയ്യാം അതിനാൽ അത് ചെയ്തുകഴിഞ്ഞാൽ ഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് മുഴുവനും ആദ്യം സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവന്നിട്ടുണ്ട് തുടർന്ന് ഹോൾഡ് ക്ലിക്കുചെയ്ത് ഈ ബട്ടണുകളെല്ലാം ക്ലിക്കുചെയ്യുക ഇപ്പോൾ സ്കെച്ച് 3 തിരഞ്ഞെടുത്തു തുടർന്ന് ബട്ടൺ നിയന്ത്രിക്കുക അമർത്തിപ്പിടിക്കുക ഹെലിക്സ് ക്ലിക്കുചെയ്യുക കൂടാതെ സ്കെച്ച് ചെയ്യുക തുടർന്ന് ഫീച്ചേഴ്സിലേക്ക് പോകുക സ്വീപ്പ് കട്ട് ഉപയോഗിക്കുക ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ ആന്തരികമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ആ നട്ടിൽ ആ ത്രെഡുകൾ കാണുന്നു ഇതാണ് നമ്മൾ നിർമ്മിക്കുന്ന രീതി ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ നട്ടുകളിൽ പുറം ഉപരിതലത്തിൽ അല്പം ഷാംഫർ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾക്ക് പരന്ന പ്രതലം ആവശ്യമില്ല അതിനായി നമ്മൾ ചെയ്യുന്നത് ഏകപക്ഷീയമായ വലുപ്പത്തിലുള്ള ഒരു വൃത്തം വരച്ച് ആ ഫീച്ചേഴ്സ് തിരഞ്ഞെടുക്കുക ആ സർക്കിൾ വരച്ചതിനുശേഷം നമ്മൾ ഫീച്ചേഴ്സിലേക്ക് പോകുന്നത് എക്സ്ട്രൂഡ് കട്ട് ഉപയോഗിക്കുന്നു എക്സ്ട്രൂഡ് ചെയ്തതിൽ മുഴുവൻ ഡിറക്ഷൻ നിലൂടെയും കട്ട് തുടർന്ന് കട്ട് ചെയ്ത വശത്തേക്ക് ഫ്ളിപ്ചെയ്യുക അതിനാൽ പുറത്ത് നമ്മൾ മുറിക്കാൻ പോകുന്നു കൂടാതെ 60 ഡിഗ്രി പോലെ ഒരു ടാപ്പേർഡ് ആംഗിൾ നൽകുന്നു തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലെ വശം പരന്നതാണെന്ന് കാണാം പക്ഷേ ഇവ ചെറുതായി ടാപ്പുചെയ്തിരിക്കുന്നു അതുപോലെ ഇതിനും നമ്മൾ നിർമ്മിക്കുന്നു ഇതിന് സാധാരണമായി അതേ ഒരു വൃത്തം വരയ്ക്കുക ഒരിക്കൽ ഞങ്ങൾ ഈ ഉപരിതലം തിരഞ്ഞെടുത്ത് ഫീച്ചേഴ്സിലേക്ക് പോകുക എക്സ്ട്രൂഡ് കട്ട് ബ്ലൈൻഡ് തിരഞ്ഞെടുക്കുന്നതിന് പകരം എല്ലാ ഫ്ലിപ്പ് സൈഡിലൂടെയും മുറിക്കുക ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്ന 60 ഡിഗ്രി കോണാണ് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ നമ്മൾ നീക്കംചെയ്ത മുകളിലെ ഭാഗം അതിനാൽ ഈ ഭാഗത്തു മാത്രമേ നിങ്ങൾക്ക് ഒരുവാഷർ ഫിക്സ് ചെയ്യാൻ സാധിക്കൂ ഈ ഭാഗങ്ങൾ എല്ലായ്പ്പോഴും ചരിഞ്ഞ കട്ട് ആയിരിക്കും ഇപ്പോൾ ഈ ഡ്രോയിംഗ് സംരക്ഷിക്കാം എം 10 ആയി സംരക്ഷിക്കുക ഇപ്പോൾ നമുക്ക് നട്ട് സംരക്ഷിക്കാം അതിനാൽ നമ്മുക്ക് നട്ടും ബോൾട്ടും ഉണ്ട് നമുക്ക് അസംബ്ലി ഡ്രോയിംഗ് അസംബ്ലി ബോൾട്ട് നട്ട് രണ്ടും എടുത്ത് ഇവിടെ വയ്ക്കുക നട്ട് തിരുകുക സൂക്ഷിക്കുക ബോൾട്ടും നട്ടും നമ്മൾ നിർമ്മിച്ച രീതിയാണിത് ഇപ്പോൾ ഈ ഉപരിതലങ്ങളുമായി കൂട്ടിച്ചേർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത് എടുക്കുക എന്നതാണ് നമുക്ക് അങ്ങനെ അത്ചെയ്യാൻ കഴിയും അല്ലാത്തപക്ഷം ഉപരിതലങ്ങളും നമുക്ക് കൂട്ടിച്ചേർക്കാം ഈ ഉപരിതലവുമായി കൂട്ടിച്ചേർക്കൽ പോലുള്ള എന്തെങ്കിലും നമുക്ക് ചെയ്യാംഓക്കേ ക്ലിക്കുചെയ്യുക